എല്ലാവര്ക്കും ഗുഡ് ആഫ്റെർനൂൺ ഇന്ന് നമ്മൾ വിവിധ കോസ്റ്റ് ബെനെഫിറ്റ് മൂല്യനിർണയ രീതികൾ ചർച്ച ചെയ്യും കോസ്റ്റ് ബെനിഫിറ്റ് അനല്യ്സിസ്ന്റെ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു അതിനർത്ഥം ചെലവും ആനുകൂല്യങ്ങളും തിരിച്ചറിയുക തുടർന്ന് വിവിധ വിലകളും ആനുകൂല്യങ്ങളും വർഗ്ഗീകരിക്കുക കോസ്റ്റ് ബെനിഫിറ്റ് മൂല്യനിർണ്ണയ രീതി തിരഞ്ഞെടുക്കുന്ന മൂന്നാമത്തെ ഘട്ടം ഇന്ന് നമ്മൾ കാണും ഉചിതമായ കോസ്റ്റ് ബെനെഫിറ്റ് മൂല്യനിർണ്ണയ രീതി എങ്ങനെ തിരഞ്ഞെടുക്കാം

ലഭ്യമായ വ്യത്യസ്ത കോസ്റ്റ് ബെനിഫിറ്റ് മൂല്യനിർണ്ണയ ടെക്നിക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നെറ്റ് ബെനിഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അനാല്യ്സിസ് പേബാക്ക് പീരീഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ് അല്ലെങ്കിൽ ആർഒഐ പ്രേസേന്റ്റ് വാല്യൂ അനാല്യ്സിസ് നെറ്റ് പ്രേസേന്റ്റ് വാല്യൂ അല്ലെങ്കിൽ എൻപിവി ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ ഐആർആർ ബ്രേക്ക് ഈവൻ അനാല്യ്സിസ് എന്നിവയും മറ്റ് ചിലതും നിലവിലുണ്ട് ആദ്യം നമ്മൾ ലാഭത്തെക്കുറിച്ച് ചർച്ച ചെയ്യും അതിനാൽ അറ്റാദായം എന്നാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് ഒരു പ്രോജക്റ്റിന്റെ അറ്റ ലാഭം മൊത്തം ചെലവും ജീവിതത്തിലെ മൊത്തം വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് പദ്ധതി അതിനാൽ ചെലവഴിച്ച മൊത്തം ചെലവും പ്രോജക്റ്റിന്റെ ജീവിതകാലത്ത് ലഭിച്ച മൊത്തം വരുമാനവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇത് വിശദീകരിക്കുന്നതിന് നമുക്ക് ഒരു ചെറിയ ഉദാഹരണം എടുക്കാം നമ്മൾ ഒരു ചെറിയ ഉദാഹരണം എടുത്തിട്ടുണ്ട് ക്യാഷ്ഫ്ലോ വർഷം തോറും ആണ് നൽകിയിട്ടുള്ളത് അവസാന ക്ലാസ്സിൽ ക്യാഷ് ഫ്ലോ എന്താണെന്ന് നമ്മൾ കണ്ടു അതിനാൽ സിസ്റ്റം പ്രവർത്തിക്കുന്നതിന് മുമ്പുള്ള ചെലവ് 0 വർഷം പ്രതിനിധീകരിക്കുന്നുവെന്ന് ഈ ഉദാഹരണത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും സിസ്റ്റം പ്രവർത്തിക്കുന്നതിന് മുമ്പ് വർഷം 0 ആയി എടുക്കുകയും സിസ്റ്റം പ്രവർത്തിക്കുന്നതിന് മുമ്പായി ഈ ക്യാഷ് ഫ്ലോ ചെലവിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു ക്യാഷ് ഫ്ലോ എന്നാൽ എന്ത് എന്ന് ഇന്നലെ നമ്മൾ ചർച്ചചെയ്തു ഇത് വരുമാനത്തിന്റെ മൂല്യംകുറഞ്ഞ ഔട്ട്ഗോയിംഗ് ആണ് ഞാൻ അർത്ഥമാക്കുന്നത് വരുമാനവും ചെലവും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ മൂല്യം അതിനാൽ വരുമാന൦ മൈനസ് ഔട്ട്ഗോയിംഗ് ക്യാഷ് ഫ്ലോവിനെ പ്രതിനിധീകരിക്കും ആപ്ലിക്കേഷന്റെ ആജീവനാന്ത ജീവിതത്തിനായുള്ള എല്ലാ കാരണങ്ങളുമുള്ള ക്യാഷ് ഫ്ലോവിന്റെ മൂല്യമായി നെറ്റ് പ്രോഫിറ്റ് നിർവചിക്കപ്പെടുന്നു അതിനാൽ ജീവിതത്തിലുടനീളം ഒരു അപ്ലിക്കേഷനിൽ എത്ര ക്യാഷ് ഫ്ലോ സംഭവിക്കുന്നു ആപ്ലിക്കേഷന്റെ മുഴുവൻ കാലത്തേയും ക്യാഷ് ഫ്ലോവിന്റെ മൊത്തം മൂല്യം നമ്മൾ ഈ ഉദാഹരണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കാണുന്നു അല്ലെങ്കിൽ പ്രോജക്റ്റ് 5 വർഷത്തേക്ക് തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ 0 വർഷത്തിനുള്ളിൽ നമ്മൾ 100000 ചെലവഴിച്ചു അതിനാൽ പ്രോജക്റ്റ് സ്ഥാപിക്കുന്നതിനായി ഇത് ചെലവഴിക്കുന്നു ഇവിടെ നമുക്ക് വരുമാനമൊന്നും ലഭിച്ചിട്ടില്ല തുടർന്ന് വർഷം 1 മുതൽ അത് വരുമാനം നൽകുന്നു അല്ലെങ്കിൽ ആദ്യ വർഷം ഇത് 10000 മൊത്തം നൽകുന്നു അല്ലെങ്കിൽ 5 ആം വർഷത്തിന്റെ അവസാനത്തിൽ ഇത് 100000 റിട്ടേൺ 100000 ബെനെഫിറ്റ് നൽകുന്നു അല്ലെങ്കിൽ അഞ്ചാം വർഷത്തിൽ ഇത് നൽകുന്ന വരുമാനം 100000 എന്ന് പറയാൻ കഴിയും മൊത്തം ലാഭം 0 മുതൽ 5 വർഷം വരെ ഈ ക്യാഷ് ഫ്ലോ ആയിരിക്കണം അവ ചേർക്കേണ്ടതാണ് നിങ്ങൾക്ക് അത് ലഭിക്കും അതിനാൽ 5 വർഷത്തേക്കുള്ള ഈ പ്രോജക്റ്റിന്റെ അറ്റ ലാഭം 50000 ഡോളറാണെന്ന് ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും ലാഭത്തിൽ ഈ ഉദാഹരണത്തിന് 50000 ആണ് ഇപ്പോൾ ക്യാഷ് ഫ്ലോവിന്റെ സമയം കണക്കാക്കാത്തതാണ് ഈ സാങ്കേതികതയുടെ പോരായ്മ അത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പണത്തിന്റെ സമയ മൂല്യം എന്താണ് ക്യാഷ് ഫ്ലോവിന്റെ സമയം ഇത് കണക്കിൽ എടുക്കില്ല അതാണ് ഇതിന്റെ ഒരു പോരായ്മ അടുത്ത ക്ലാസ്സിൽ ഈ പോരയ്മയെ എങ്ങനെ മറികടക്കാം എന്ന് നമുക്ക് നോക്കാം ഇവിടെ മറ്റൊരു ഉദാഹരണം നമുക്ക് വേഗത്തിൽ നോക്കാം നിങ്ങൾക്ക് നാല് പ്രോജക്ടുകൾ കാണിച്ചിട്ടുണ്ടെന്നും ഓരോ പ്രോജക്റ്റുകളുടെയും ക്യാഷ് ഫ്ലോ കാണിച്ചിട്ടുണ്ടെന്നും വർഷം തോറും ഓരോ പ്രോജക്റ്റിനുമുള്ള ക്യാഷ് ഫ്ലോ കാണിക്കുന്നുവെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും അവസാനമായി അവസാന വരിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ചചെയ്തത് വിവിധ പ്രോജക്റ്റുകൾ ഓരോ പ്രോജക്റ്റുകളുടെയും അറ്റ ലാഭം എന്നിവയാണ് കൂടാതെ പ്രോജക്റ്റ് 1 നായി ഞാൻ മുമ്പത്തെ സ്ലൈഡിൽ കാണിച്ചതായി നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അതിനാൽ അറ്റാദായം 50000 ആയി മാറുന്നു പ്രോജക്റ്റ് 2 ന് വീണ്ടും എല്ലാ ക്യാഷ് ഫ്ലോകളും നിങ്ങൾക്ക് ലഭിക്കും മൊത്തം ലാഭം 100000 എന്ന് പറയുന്നത് പോലെയാണ് ഇത് അതുപോലെ തന്നെ പണത്തിനായുള്ള അറ്റ ലാഭത്തിനും പ്രോജക്റ്റ് 3 ന് 50000 ഉം പ്രോജക്റ്റ് 4 ന്റെ അറ്റ ലാഭം 75000 ഉം ആയിരിക്കും ഇവിടെ പ്രോജക്റ്റ് 2 പരമാവധി അറ്റാദായം നൽകുന്നുവെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും അതുകൊണ്ടാണ് ഇത് ഇവിടെ പ്രയോജനകരമാകുന്നത് പക്ഷേ ഇത് പരമാവധി അറ്റാദായം നൽകിയാലും നിങ്ങൾ കാണുന്നു പക്ഷേ വൻ നിക്ഷേപത്തിന്റെ ചെലവിൽ തുടക്കത്തിൽ നിങ്ങൾ ഓരോ വർഷവും പ്രോജക്റ്റ് 1 ഉം പ്രോജക്റ്റ് 2 ഉം എത്രമാത്രം ചെലവഴിക്കുന്നുവെന്ന് കാണുക 100000 പ്രോജക്റ്റ് 4 ഇത് 120000 ആണ് ഇവിടെ നമ്മൾ 100000 രൂപ ചെലവഴിച്ചു അതിനാൽ പ്രാരംഭ നിക്ഷേപം 100000 ആണ് അതുകൊണ്ടാണ് ഇത് പരമാവധി അറ്റാദായം നൽകിയാലും വലിയ നിക്ഷേപങ്ങളുടെ ചെലവിൽ അത് പരിഗണിക്കേണ്ടതുണ്ട് അടുത്തത് പേ ബാക്ക് പീരീഡ് അഥവാ തിരിച്ചടവ് കാലാവധിയാണ് പേ ബാക്ക് പീരീഡ് നിങ്ങൾ തുടക്കത്തിൽ ചെലവഴിച്ച പ്രാരംഭ നിക്ഷേപം പോലും തകർക്കുന്നതിനോ അല്ലെങ്കിൽ തിരിച്ചടയ്ക്കുന്നതിനോ എടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ ആരംഭിക്കുമ്പോൾ ആ വർഷം നിങ്ങൾക്ക് ആ തുക തിരികെ ലഭിക്കുന്നു അതിനാൽ അത് പേ ബാക്ക് പീരീഡ് ആണ് നിങ്ങൾ ചെലവഴിച്ച ചെലവിനേക്കാൾ വരുമാനത്തിന്റെ മിച്ചം സൃഷ്ടിക്കാൻ ആരംഭിക്കുന്ന സമയമാണിത് ഏത് വർഷമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ സുഖം പ്രാപിക്കുന്നത് നിങ്ങൾ ആ തുക തിരികെ നേടുന്നു ഒപ്പം കൂടുതൽ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു അതിനാൽ ആ വർഷം ആണ് പേ ബാക്ക് പീരീഡ് എന്ന് അറിയപ്പെടുന്നത് പ്രോജെക്ടിൽ എന്താണ് അഭികാമ്യം ഏറ്റവും കുറഞ്ഞ പേ ബാക്ക് പീരീഡ് ഉള്ള പ്രോജക്റ്റ് അഭികാമ്യമാണ് കാരണം ഒരു പ്രോജക്റ്റ് കടക്കെണിയിലായ സമയം കുറയ്ക്കാൻ ഉടമ ആഗ്രഹിക്കുന്നു അതിനാൽ ആ കാലയളവ് കുറയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കും കാരണം അദ്ദേഹം ഈ പ്രാരംഭ ധനസഹായം ചില വായ്പയിൽ നിന്നോ അല്ലെങ്കിൽ ചില ബാങ്കിൽ നിന്നോ കൊണ്ടുവന്നതാകാം അതിനാൽ ഈ ഉദാഹരണത്തിൽ നിങ്ങൾ ആദ്യം നിക്ഷേപിച്ചത് 100000 എന്ന് പറയുകയും ഒന്നാം വർഷം അയാൾക്ക് 10000 ലഭിക്കുകയും രണ്ടാം വർഷം 10000 മൂന്നാം വർഷം 10000 നാലാം വർഷം 20000 അതിനാൽ ഇത് എത്രയാണ്നാലാം വർഷം വരെ അയാൾക്ക് 50000 ലഭിക്കുന്നു അതിനാൽ അടുത്ത അഞ്ചാം വർഷത്തിൽ അദ്ദേഹത്തിന് 100000 ലഭിക്കുന്നു അതായത് ഇവിടെ നിക്ഷേപിച്ച പ്രാരംഭ 100000 അഞ്ചാം വർഷത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് അതിനാൽ ഈ ഉദാഹരണത്തിനായി പേ ബാക്ക് പീരീഡ് 5 വർഷമാണ് സമാനമായി നമ്മുടെ മുമ്പത്തെ നാല് പ്രോജക്റ്റുകൾ ഉള്ള ഉദാഹരണത്തിൽ നിങ്ങൾക്ക് പേ ബാക്ക് പീരീഡ് കണക്കുകൂട്ടാൻ കഴിയും നിങ്ങൾക്ക് പ്രോജക്റ്റ് 1 നായി ഞാൻ ഇതിനകം തന്നെ കാണിച്ചുതന്ന പേ ബാക്ക് പീരീഡ് 5 ആണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും കൂടാതെ പ്രോജക്റ്റ് 2 നുള്ള സമാനത നിങ്ങൾക്ക് തുടക്കത്തിൽ അയയ്ക്കുമ്പോൾ കാണാൻ കഴിയും 100000 ഇതും നിങ്ങൾ വീണ്ടെടുക്കുന്നുവെന്നതാണ് കൂടാതെ വർഷം 5 ഉം പ്രോജക്റ്റ് 3 നുള്ള ഒരു വർഷവും നിങ്ങൾക്ക് ലഭിക്കുന്നത് തുടക്കത്തിൽ അദ്ദേഹം 100000 ചെലവഴിച്ചു അതിനാൽ ഇതിന് 30 പ്ലസ് 30 60 30 90 ലഭിക്കുന്നു നാലാം വർഷം അയാൾക്ക് ഈ പ്രാരംഭ തുക ലഭിക്കുന്നു അത് അദ്ദേഹം ചെലവഴിച്ച 100000 പ്രോജക്റ്റ് 3 നു വർഷം 4 എന്നത് പേ ബാക്ക് പീരീഡ് ആണ് പ്രോജക്റ്റ് 4 ന്റെ കാര്യത്തിൽ തുടക്കത്തിൽ അദ്ദേഹം ചെലവഴിച്ചതായോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ 120000 ചെലവഴിച്ചതായോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒന്നാം വർഷം 30 ആകുമ്പോൾ അയാൾക്ക് ആ മൂല്യം ലഭിക്കുന്നു തുടർന്ന് 30000 പിന്നെ 30000 അതിനാൽ നാലാം വർഷം പൂർത്തിയാകുമ്പോൾ അയാൾക്ക് മാത്രമേ തിരികെ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തിരികെ ലഭിക്കുന്നത് പ്രാരംഭ തുക 120000 ആണ് വർഷാവസാനം 4 പദ്ധതിക്ക് പ്രാരംഭ ചെലവുകൾ തിരികെ ലഭിക്കും ഓർഗനൈസേഷൻ ഒറിജിനൽ അല്ലെങ്കിൽ പ്രാരംഭ ധനസഹായം ലഭിക്കുന്ന പ്രോജക്റ്റ് 3 ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ പേ ബാക്ക് പീരീഡ് പരിഗണിക്കുകയാണെങ്കിൽ പ്രോജക്റ്റ് 3 ഏറ്റവും പ്രയോജനകരമായ പ്രോജക്റ്റായി കണക്കാക്കാം ഈ ടെക്നിക്കിന്റെ പേ ബാക്ക് പീരീഡ് ഗുണങ്ങൾ ചെറിയ പ്രവചന പിശകുകളോട് പ്രത്യേകിച്ച് സെൻസിറ്റീവ് അല്ലെന്ന് കണക്കാക്കുന്നത് വളരെ ലളിതമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ പ്രോജക്ടിന്റെ മൊത്തത്തിലുള്ള ലാഭക്ഷമതയെ അവഗണിക്കുന്നതുപോലെയുള്ള ചില നറുക്കെടുപ്പുകളുണ്ട് നമ്മൾ ലാഭകരമായ പദ്ധതി കണക്കിലെടുക്കുന്നില്ല പ്രോജക്റ്റ് തകരാറിലായികഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും വരുമാനത്തെയോ ചെലവുകളെയോ അവഗണിക്കുന്നു പദ്ധതി പ്രൊകുയർമെൻറ് പോയിന്റായി എത്തിക്കഴിഞ്ഞാൽ അതിന്റെ വരുമാനച്ചെലവ് കണക്കിലെടുക്കില്ല ആ പ്രോജക്റ്റ് 2 ഉം 4 ഉം മൊത്തത്തിൽ പ്രോജക്റ്റ് 3 നെക്കാൾ ലാഭകരമാണെന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇത് നിങ്ങൾ അവഗണിക്കുകയാണ് ദയവായി ഇവിടെ പ്രോജക്റ്റ് 2 ഉം 4 ഉം കാണുക പേ ബാക്ക് പീരീഡ് അനുസരിച്ച് പ്രോജക്റ്റ് 3 പ്രയോജനകരമാണെന്ന് നമ്മൾ കണ്ടു കാരണം നാലാം വർഷത്തിൽ അദ്ദേഹം റീകവർ ചെയ്യുന്നു അയാൾക്ക് പ്രാരംഭ തുക ലഭിക്കുന്നു പക്ഷേ ലാഭം എവിടെയാണെന്ന് നിങ്ങൾ കാണുന്നു ലാഭം അറ്റ ലാഭം കൂടുതൽ പ്രോജക്റ്റ് 2 ൽ ഏറ്റവും ഉയർന്നത് 75 ആണ് നിങ്ങൾ അറ്റാദായം കണക്കിലെടുക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പ്രോജക്റ്റ് 2 മികച്ചതായിരിക്കണം പക്ഷേ അത് പരിഗണിക്കാത്തതിനാൽ പ്രോജക്റ്റിന്റെ മൊത്തത്തിലുള്ള ലാഭക്ഷമതയെ ഇത് പരിഗണിക്കാത്തതിനാൽ അതുകൊണ്ടാണ് പ്രോജക്റ്റ് 2 അല്ലെങ്കിൽ പ്രോജക്റ്റ് 4 മൊത്തത്തിൽ കൂടുതൽ ആണെങ്കിൽ പോലും പേ ബാക്ക് പീരീഡ് ഉപയോഗിച്ച് അവ അവഗണിക്കും അതിനാൽ പേ ബാക്ക് പീരീഡ്ൻറെ ഒരു പോരായ്മയാണിത് അടുത്ത മെട്രിക് അടുത്ത അളവ് അല്ലെങ്കിൽ നിക്ഷേപത്തിന്റെ വരുമാനത്തെ സൂചിപ്പിക്കുന്ന ആർഓഐ എന്ന അടുത്ത സാങ്കേതികത നമുക്ക് നോക്കാം ഈ അളവ് നിക്ഷേപത്തെ കാലയളവിലെ ലാഭത്തെ താരതമ്യപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗ്ഗം നൽകുന്നു ഇത് നിക്ഷേപത്തിന്റെ അറ്റ ലാഭത്തെ താരതമ്യം ചെയ്യും ഒരു ഓർഗനൈസേഷന്റെ കാലയളവ് ഇത് ഇപ്പോൾ മൂലധനത്തിന്റെ വരുമാനം കണക്കാക്കാൻ ലളിതവും എളുപ്പവുമാണ് അതിനാൽ ചെലവഴിച്ച മൂലധന തുകയുടെ വരുമാനത്തിന്റെ അളവ് കണക്കാക്കാൻ വളരെ ലളിതവും എളുപ്പവുമാണ് ഈ രീതി ഗണിതശാസ്ത്രപരമായി നമുക്ക് ആർഓഐ യെ ഇതുപോലെ നിർവചിക്കാം ROI ശരാശരി വാർഷിക ലാഭം x 100 മൊത്തം നിക്ഷേപം ഇപ്പോൾ ആർഓഐ ശതമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകടിപ്പിക്കുന്നത് അതിനാൽ മുമ്പത്തെ പ്രോജക്റ്റ് 1 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 5 വർഷത്തിനിടയിൽ എത്ര വർഷങ്ങൾക്കൊപ്പം അറ്റാദായം 50000 ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ശരാശരി ലാഭം എത്രയാണ് 5 വർഷത്തിനുള്ളിൽ സംഭവിക്കുന്നതിനാൽ ശരാശരി ലാഭം 50000 5 കൊണ്ട് ഹരിക്കപ്പെടും അതിനാൽ ശരാശരി ലാഭം 10000 ആയി വരുന്നു തുടക്കത്തിൽ കർഷകർ 100000 ചെലവഴിച്ചത് നിങ്ങൾ കണ്ട മൊത്തം നിക്ഷേപത്തിലൂടെ ആർഓഐ 10000 ആയി കണക്കാക്കാം അതിനാൽ 100 ൽ 10000 മുതൽ 100000 വരെ 10 ശതമാനമായി വരുന്നു പ്രോജക്ട് 1 നു ആർഒഐ വരുന്നത് 10 ശതമാനമാണ് അതിനാൽ സമാനമായി നിങ്ങൾക്ക് പ്രോജക്റ്റ് 2 ന് 2 ശതമാനം വരുന്ന മറ്റ് പ്രോജക്ടുകൾക്കായി ആർഒഐ കണക്കുകൂട്ടാൻ കഴിയും പ്രോജക്റ്റ് 3 ന് ഇത് 10 ശതമാനവും പ്രോജക്റ്റ് 4 ന് ഇത് 12 5 ശതമാനവുമാണ് ഏറ്റവും ഉയർന്ന പ്രോജക്റ്റിന് മുൻഗണന നൽകേണ്ടതാണ് ലക്ഷ്യം ആർഒഐ മുൻഗണന നൽകണം ഈ കേസിൽ പ്രോജക്റ്റ് 4 ന് ഏറ്റവും ഉയർന്ന ആർഒഐ ഉണ്ട് അതിനാൽ ഈ ഉദാഹരണത്തിലെ ഏറ്റവും പ്രയോജനകരമായ പ്രോജക്റ്റ് പ്രോജക്റ്റ് 4 ആണ് അടുത്തതായി ലാഭകരമായ നെറ്റ് പ്രോഫിടബിലിടി പോലുള്ള ഈ ആർഒഐ യുടെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ക്യാഷ് ഫ്ലോവിന്റെ സമയവും കണക്കിലെടുക്കുന്നില്ല ക്യാഷ് ഫ്ലോവിന്റെ സമയ മൂല്യത്തിലേക്ക് അത് എടുക്കാത്ത പ്രശ്നം നെറ്റ് ലാഭ രീതി അല്ലെങ്കിൽ നെറ്റ് ബെനിഫിറ്റ് രീതി നിങ്ങൾ ഇതിനകം കണ്ടു അതുപോലെ ക്യാഷ് ഫ്ലോവിന്റെ സമയ മൂല്യം ആർഒഐ കണക്കിലെടുക്കുന്നില്ല മാത്രമല്ല ബാങ്ക് ഈടാക്കുന്ന പലിശ നിരക്കുകളുമായി ഇതിനു യാതൊരു ബന്ധവുമില്ല അതിനാൽ വ്യത്യസ്ത ബാങ്കുകൾ വ്യത്യസ്ത പലിശ നിരക്ക് ഈടാക്കാം പണമിടപാടിന്റെ സമയം കണക്കിലെടുക്കാത്തതിനാൽ ബാങ്കുകൾ ഈടാക്കുന്ന പലിശ നിരക്കുകളുമായി ഇത് ഒരു ബന്ധവും വഹിക്കുന്നില്ല അതുകൊണ്ട് ഈ രീതി വളരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാകാം പ്രേസേന്റ്റ് വാല്യൂ അനാല്യ്സിസ് എന്നറിയപ്പെടുന്ന ഒരു പ്രധാന രീതി നിങ്ങൾ ഇപ്പോൾ കാണും അതിനാൽ പ്രേസേന്റ്റ് വാല്യൂ അനാല്യ്സിസ് കൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് ദീർഘകാല പ്രോജക്ടുകൾ വികസിപ്പിക്കുന്നതിലെ വികസനത്തിൽ ഇന്നത്തെ ചെലവ് എത്രയാണെന്ന് നാളത്തെ ആനുകൂല്യങ്ങളുടെ മുഴുവൻ മൂല്യവുമായി താരതമ്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനർത്ഥം ഇന്ന് നമ്മൾ എന്തുവിലയാണ് നിക്ഷേപിക്കുന്നത് നാളെ ഒരു ആനുകൂല്യത്തിൽ ലഭിക്കുന്ന മൂല്യം എന്താണ് ഇത് താരതമ്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് പണത്തിന്റെ സമയ മൂല്യവും പലിശനിരക്ക് പണപ്പെരുപ്പം നിക്ഷേപത്തിന്റെ മൂല്യത്തിൽ മാറ്റം വരുത്തുന്ന മറ്റ് ഘടകങ്ങൾ എന്നിവ അനുവദിക്കുന്നു അതിനാൽത്തന്നെ നിലവിലെ മൂല്യം നാം അറിഞ്ഞിരിക്കണം നമ്മൾ എന്ത് നിക്ഷേപമാണ് നടത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടത്തിനായി പ്രേസേന്റ്റ് വാല്യൂ അനാല്യ്സിസ് നടത്തണം അതിനാൽ പ്രേസേന്റ്റ് വാല്യൂ അനാല്യ്സിസ് വളരെ പ്രധാനമാണ് ഈ പ്രേസേന്റ്റ് വാല്യൂ അനാല്യ്സിസ് ഇത് മുകളിലുള്ള ഈ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുന്നു അതിനർത്ഥം ഇന്നത്തെ ചെലവിനെ നാളത്തെ ആനുകൂല്യങ്ങളുടെ പൂർണ്ണ മൂല്യവുമായി എങ്ങനെ താരതമ്യം ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പരിഗണിക്കാം പലിശ നിരക്ക് പണപ്പെരുപ്പവും നിക്ഷേപത്തിന്റെ മൂല്യത്തിൽ മാറ്റം വരുത്തുന്ന മറ്റ് ഘടകങ്ങളും എങ്ങനെ കണക്കിലെടുക്കാം അതിനാൽ ഇത് പിവി വിശകലനം പ്രേസേന്റ്റ് വാല്യൂ അനാല്യ്സിസ് നടത്തും ഇന്നത്തെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റത്തിന്റെ വിലയും നേട്ടങ്ങളും കണക്കാക്കുന്നതിലൂടെ ഇത് മുകളിലുള്ള പ്രശ്നങ്ങളെ നിയന്ത്രിക്കും നിക്ഷേപത്തിന്റെ ഇന്നത്തെ പണമൂല്യവും വ്യത്യസ്ത ബദലുകളുമായി താരതമ്യപ്പെടുത്തും നിലവിലെ മൂല്യം കണക്കാക്കുന്നതിൽ പരിഗണിക്കേണ്ട ഒരു പ്രധാന ഘടകം ഡിസ്കൌണ്ട് റേറ്റ് ആണ് അതിനാൽ ഇപ്പോഴത്തെ മൂല്യം നമ്മൾ കണക്കാക്കുമ്പോൾ മറ്റൊരു പ്രധാന ഘടകം ഡിസ്കൌണ്ട് നിരക്കും ഈ ഡിസ്കൌണ്ടും എന്നറിയപ്പെടുന്നു ഇപ്പോഴത്തെ മൂല്യത്തിനായി ഡിസ്കൌണ്ട് ഫാക്ടർ എന്ന് വിളിക്കുന്ന ഒരു ഘടകം കമ്പ്യൂട്ടർ ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഡിസ്കൌണ്ട് റേറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ ഡിസ്കൌണ്ട്ഫാക്ടർ ഇപ്പോഴത്തെ മൂല്യം കണക്കാക്കുന്നതിൽ പരിഗണിക്കേണ്ട ഒരു നിർണായക ഘടകം ഡിസ്കൌണ്ട് റേറ്റ് ആണ് അത് മറ്റൊരു പ്രോജക്റ്റിൽ നിക്ഷേപിച്ചാൽ പണം നേടാൻ കഴിയുന്ന ഫോർഗോൺ അമൌന്റ്റ് തുല്യമാണ് ആ പണം മറ്റൊരു പ്രോജക്റ്റിൽ നിക്ഷേപിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്താണ് ഫോർഗോൺ അമൌന്റ്റ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഡിസ്കൌണ്ട് റേറ്റിനെ നിർവചിക്കുന്നത് വാർഷിക നിരക്ക് ഭാവിയിലെ വരുമാനം കൊണ്ട് ഡിസ്കൌണ്ട് ചെയ്യുന്നതാണ് ഗണിതശാസ്ത്രപരമായ ഡിസ്കൌണ്ട് ഫാക്ടർ ഇനിപ്പറയുന്ന രീതിയിൽ കണക്കാക്കുന്നു DF 11rt ഇവിടെ 'r' എന്നത് ഡിസ്കൌണ്ട് റേറ്റ്നു തുല്യമാണ് കൂടാതെ 't' എന്നത് ക്യാഷ് ഫ്ലോ സംഭവിക്കുന്ന ഭാവിയിലേക്കുള്ള വർഷങ്ങളുടെ എണ്ണത്തിന് തുല്യമാണ് അതിനാൽ ഈ ഡിസ്കൌണ്ട് ഫാക്ടർ ഉപയോഗിച്ച് ലളിതമായ ഫോർമുല ഇതിലുണ്ട് ഡിസ്കൌണ്ട് റേറ്റ്ന്റെ ചില ശതമാനത്തിനും വ്യത്യസ്ത വർഷങ്ങളിലുമുള്ള ഡിസ്കൌണ്ട് ഫാക്ടർ നമ്മൾ കണ്ടെത്തും ഡിസ്കൌണ്ട് റേറ്റ് 10 മുതൽ 10 ശതമാനം വരെ അല്ലെങ്കിൽ പലിശ നിരക്ക് 10 ശതമാനവും 1 വർഷത്തിൽ 1 വർഷവും എടുക്കുകയാണെങ്കിൽ ഡിസ്കൌണ്ട് ഫാക്ടർ 1 മുതൽ 1 വരെ തുല്യമാണ് മാത്രമല്ല ഇത് പവർ 0 10 ഉം ആയിരിക്കും അതിനാൽ ഇത് 0 9091 ആയി മാറുന്നു അതുപോലെ തന്നെ 10 ശതമാനം റിട്ടേൺ ഉണ്ടെങ്കിൽ 2 വർഷത്തെ ഡിസ്കൌണ്ട് ഫാക്ടർ 1 10 ആകുമ്പോൾ 1 ആകും കൂടാതെ ഈ ഫോർമുലയിലെ 1 പ്ലസ് ആർ പവർ ടിയിലേക്ക് ഒരു ചെറിയ തെറ്റ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഇവിടെ ഇത് പവർ 2 ന് 1 ബൈ 1 പ്ലസ് 0 10 ആയിരിക്കണം അതിനാൽ ഇത് 0 8294 ന് തുല്യമായിരിക്കും സമാനമായി ഡിസ്കൌണ്ട് ഫാക്ടർ ഏത് വർഷവും ഡിസ്കൌണ്ട് റേറ്റും കണക്കാക്കാം നിലവിലെ മൂല്യങ്ങൾ കണക്കുകൂട്ടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പട്ടിക നിങ്ങൾക്ക് നൽകി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഡിസ്കൌണ്ട് വാല്യൂ ഇവിടെ ഒരു പട്ടികയുണ്ട് നിങ്ങൾ വ്യത്യസ്ത വർഷം ഡിസ്കൌണ്ട് വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൌണ്ട് ഫാക്ടര്സ് 5 ശതമാനം എടുക്കൽ 6 ശതമാനം 8 ശതമാനം 10 ശതമാനം 12 ശതമാനം 15 ശതമാനം തുടങ്ങിയ കുറഞ്ഞ നിരക്ക് വര്ഷം 1 മുതൽ 10 തുടങ്ങി 15 20 25 വരെ വ്യത്യസ്ത ഡിസ്കൌണ്ട് നിരക്കുകളും വ്യത്യസ്ത വർഷങ്ങളും കാണിച്ചിരിക്കുന്ന വർഷങ്ങളുടെ എണ്ണവുമുള്ള ഡിസ്കൌണ്ട് ഫാക്ടർ എന്തായിരിക്കാം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ നെറ്റ് പ്രേസേന്റ്റ് വാല്യൂൽ പ്രേസേന്റ്റ് വാല്യൂ കണ്ടെത്തുന്നതിനോ ഇത് നിങ്ങളെ സഹായിക്കും നമുക്ക് പെട്ടെന്ന് ഒരു ചെറിയ ഉദാഹരണം എടുക്കാം ഇവിടെ പ്രോജക്റ്റ് 3000 ഡോളർ പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ടതുണ്ടെന്നും പ്രോജക്റ്റിന്റെ നാല് വർഷത്തെ ആയുസ്സിൽ ശരാശരി വാർഷിക ആനുകൂല്യം 1500 ഡോളറായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഭാവിയിൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നതുപോലെ നിക്ഷേപം ഇന്ന് നടത്തുമെന്ന് കാണുക അതിനാൽ പ്രേസേന്റ്റ് വാല്യൂ ഫ്യുച്ചർ വാല്യൂ ആയി താരതമ്യപ്പെടുത്തുന്നു ഇന്ന് നാം എത്രമാത്രം ചെലവഴിച്ചുവെന്നും ഭാവിയിൽ എത്രമാത്രം പ്രതീക്ഷിക്കുന്നുവെന്നും നിക്ഷേപിച്ച പണത്തിന്റെ സമയ മൂല്യം പരിഗണിച്ച് പ്രേസേന്റ്റ് വാല്യൂവിനെ ഫ്യുച്ചർ വാല്യൂവുമായി താരതമ്യം ചെയ്യുന്നു പണത്തിന്റെ ഈ സമയ മൂല്യം പരിഗണിക്കാത്ത അറ്റാദായത്തിലും ആർഓഐലും പരിഗണിച്ചിട്ടില്ല അതിനാൽ അവ പ്രശ്നമാണ് ഈ പ്രേസേന്റ്റ് വാല്യൂ അനാല്യ്സിസ്സിൽ ആ പ്രശ്നങ്ങൾ അവസാനിച്ചു തന്നിരിക്കുന്ന കാലയളവിന്റെ അവസാനത്തെ ആനുകൂല്യങ്ങളുടെ മൂല്യം അനുസരിച്ച് ഇന്നത്തെ നിക്ഷേപത്തിന് നിങ്ങൾ തയ്യാറാക്കിയ തുക പ്രേസേന്റ്റ് വാല്യൂ എങ്ങനെ നിർവചിക്കുന്നുവെന്ന് കാണുക ഇന്ന് നിങ്ങൾ നിക്ഷേപിക്കാൻ താൽപ്പര്യപ്പെടുന്ന തുക അത് എങ്ങനെ നിർണ്ണയിക്കാൻ കഴിയും ഒരു നിശ്ചിത കാലയളവിന്റെ അവസാനത്തിലോ അല്ലെങ്കിൽ നൽകിയ വർഷത്തിലോ ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ മൂല്യം അനുസരിച്ചാണ് ഇത് നിർണ്ണയിക്കുന്നത് അതിനാൽ ഇന്ന് നിങ്ങൾ നിക്ഷേപിക്കാൻ തയ്യാറായ ഈ തുക ചില ആനുകൂല്യങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് n വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ വർഷങ്ങളുടെ എണ്ണത്തിലോ ആയിരിക്കാം അതിനാൽ ഈ തുക ആനുകൂല്യത്തിന്റെ പ്രേസേന്റ്റ് വാല്യൂ എന്ന് വിളിക്കുന്നു അപ്പോൾ പ്രേസേന്റ്റ് വാല്യൂ എങ്ങനെ കണക്കാക്കാം ഫ്യുച്ചർ വാല്യൂവിനായി ഫോർമുല ഉപയോഗിച്ച് നമുക്ക് പ്രേസേന്റ്റ് വാല്യൂ കണക്കാക്കാം ഫ്യുച്ചർ വാല്യൂ അല്ലെങ്കിൽ ആനുകൂല്യം ഇതായി പ്രകടിപ്പിക്കാം F P1rt F എന്നത് ഫ്യുച്ചർ വാല്യൂ P എന്നത് പണത്തിന്റെ പ്രേസേന്റ്റ് വാല്യൂ അല്ലെങ്കിൽ നിക്ഷേപത്തിന്റെ പ്രേസേന്റ്റ് വാല്യൂ ആണെങ്കിൽ r എന്നത് ഡിസ്കൌണ്ട് റേറ്റ് ആണ് കൂടാതെ ക്യാഷ് ഫ്ലോ സംഭവിക്കുന്ന ഭാവിയിലേക്കുള്ള വർഷങ്ങളുടെ എണ്ണമാണ് t മുകളിലുള്ള സമവാക്യം പരിഹരിക്കുമ്പോൾ നിങ്ങൾക്ക് P യുടെ മൂല്യം P ന് തുല്യമാണ് അത് F ന് 1 ഉം r ഉം പവർ t ന് തുല്യമാണ് P F1rt ഇവിടെ പദങ്ങൾക്ക് സാധാരണ അർത്ഥമാണുള്ളത് 3000 രൂപ മുതൽമുടക്കും ശരാശരി വാർഷിക ആനുകൂല്യവും 15000 ക്ഷമിക്കണം 1500 ആയിരിക്കുമെന്ന് കരുതുക മുൻ ഉദാഹരണത്തിന് ഒരു ചെറിയ ഉദാഹരണം എടുക്കാം പദ്ധതിയുടെ നാല് വർഷത്തെ ആയുസ്സിനു ഇപ്പോൾ കണക്കുകൂട്ടാൻ ആഗ്രഹിക്കുന്നത് പ്രേസേന്റ്റ് വാല്യൂ ആണ് പ്രേസേന്റ്റ് വാല്യൂ ഇതുപോലെ കണക്കാക്കാമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഡോളറിന്റെ പ്രേസേന്റ്റ് വാല്യൂ 1500 നാലാം വർഷാവസാനം പലിശയിൽ 10 ശതമാനം നിക്ഷേപം 1500 അതിനാൽ നിലവിലെ മൂല്യം 15000 അത് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പ്രോജക്റ്റിന്റെ 4 വർഷത്തെ ആയുസ്സിനു ആവറെജ് അന്നുവൽ ബെനെഫിറ്റ് 1500 ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അന്നുവൽ ആവറെജ് അന്നുവൽ ബെനെഫിറ്റ് ആണ് 15000 4 വർഷത്തിനുശേഷം 10 പോയിന്റ് എന്ന നിരക്കിൽ 4 വർഷത്തിനുശേഷം നമുക്ക് ലഭിക്കുന്ന 1500 രൂപയുടെ ഇപ്പോഴത്തെ മൂല്യം എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയും 10 ശതമാനം പലിശ കണക്കാക്കുന്നത് പി 1500 ന് തുല്യവും പവർ നാലിലേക്ക് 0 10 ഉം ആണ് അതിനാൽ ഇത് 1027 39 ആയി വരുന്നു അക്ഷരാർത്ഥത്തിൽ അതിന്റെ അർത്ഥമെന്താണ് അതിന്റെ അർത്ഥം ഇന്ന് 1027 39 ഡോളർ 10 ശതമാനം പലിശയ്ക്ക് നിക്ഷേപിച്ചാൽ നാല് വർഷത്തിനുള്ളിൽ 1500 ഡോളർ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതിനർത്ഥം പ്രേസേന്റ്റ് വാല്യൂവിന്റെ അർത്ഥമെന്താണ് ഈ കണക്കുകൂട്ടൽ ഓരോ വർഷവും പ്രതിനിധീകരിക്കാൻ കഴിയും അവിടെ നിങ്ങൾക്ക് സ്വയം കണക്കാക്കാമെന്ന് ഒരു ആനുകൂല്യം പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പ്രേസേന്റ്റ് വാല്യൂ അടിസ്ഥാനമാക്കി നെറ്റ് പ്രെസന്റ് വാല്യു എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രധാന ആശയം നിങ്ങൾ കാണും അതിന്റെ ഹ്രസ്വ രൂപം എൻപിവി എൻപിവി ഈ നെറ്റ് പ്രേസേന്റ്റ് വാല്യൂവിനെ സൂചിപ്പിക്കുന്നു അതിനാൽ എൻപിവി എങ്ങനെ നിർവചിക്കും അല്ലെങ്കിൽ എന്താണ് ഈ എൻപിവി ഇത് എന്തിനെ പ്രതിനിധീകരിക്കുന്നു ഒരു പ്രോജക്റ്റിന്റെ ലാഭക്ഷമതയും ഉൽപാദിപ്പിക്കുന്ന ക്യാഷ് ഫ്ലോവിന്റെ സമയവും കണക്കിലെടുക്കുന്ന ഒരു പ്രോജക്റ്റ് മൂല്യനിർണ്ണയ സാങ്കേതികതയാണ് എൻപിവി അതിനാൽ നെറ്റ് പ്രോഫിറ്റ് ഈ ആർഒഐ എന്നിവ മുമ്പത്തെ ടെക്നിക്കുകൾ ഇതിനകം കണ്ടുകഴിഞ്ഞു എന്നാൽ അവ സമയ മൂല്യം കണക്കിലെടുക്കുന്നില്ല ഇവിടെ ഈ എൻപിവി ഇത് ഒരു മൂല്യനിർണ്ണയ സാങ്കേതികതയാണ് ഇത് ഒരു പ്രോജക്റ്റിന്റെ ലാഭവും സമയവും ഉൽപാദിപ്പിക്കുന്ന ക്യാഷ് ഫ്ലോയും കണക്കിലെടുക്കുന്നു നെറ്റ് പ്രേസേന്റ്റ് വാല്യൂ എങ്ങനെ ലഭിക്കും ഓരോ ക്യാഷ് ഫ്ലോയും നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ എന്ന് ഡിസ്കൌണ്ട് ചെയ്തുകൊണ്ട് നെറ്റ് പ്രേസേന്റ്റ് വാല്യൂ നേടാൻ കഴിയും കാരണം നെഗറ്റീവ് മൂല്യമായി പ്രതിനിധീകരിച്ച പ്രാരംഭ ചെലവുകളും പോസിറ്റീവ് അല്ലെങ്കിൽ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിനിധീകരിക്കുന്ന ലാഭ൦ പോസിറ്റീവ് മൂല്യങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാം ഓരോ ക്യാഷ് ഫ്ലോയും ഡിസ്കൌണ്ട് ചെയ്ത് ഡിസ്കൌണ്ട് വാല്യൂ സംഗ്രഹിച്ചുകൊണ്ട് ഇത് നേടുന്ന നെറ്റ് പ്രേസേന്റ്റ് വാല്യൂ നമ്മൾ ഇവിടെ ഒരു ചെറിയ ഉദാഹരണം എടുക്കും വീണ്ടും പ്രോജക്ടിനായി ഞാൻ എൻപിവി കണക്കാക്കുന്നു അതിനാൽ വർഷം തോറും ക്യാഷ് ഫ്ലോ വാല്യൂ ഡോളറിലാണ് നൽകിയിരിക്കുന്നത് തുടർന്ന് ഞാൻ ഇവിടെ കാണിച്ച പട്ടിക ഉപയോഗിച്ച് ഡിസ്കൌണ്ട് ഫാക്ടർ ലഭിക്കും നമ്മൾ കണ്ട പട്ടികയിൽ 1 ൽ 5 ശതമാനം നിരക്കിൽ ഡിസ്കൌണ്ട് ഫാക്ടരുകൾ ഇതാണ് അതുപോലെ 10 ന് നിങ്ങൾക്ക് 10 ന് 1 ന് ഈ ഡിസ്കൌണ്ട് ഫാക്ടർ 0 9091 ആണ് രണ്ടാം വർഷത്തിൽ 10 ശതമാനം നിരക്കിന് ഈ ഡിസ്കൌണ്ട് ഫാക്ടർ 0 8264 ആണ് അതിനാൽ നമ്മൾ ഇവിടെ ചെയ്ത എൻപിവി മൂല്യങ്ങൾ കണക്കുകൂട്ടാൻ അവ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് ഉപയോഗിക്കാൻ കഴിയും കാണാനുള്ള ഡിസ്കൌണ്ട് ഫാക്ടർ ഇവിടെ 0 ത്തിനുള്ള ഡിസ്കൌണ്ട് ഫാക്ടർ 1 ആണെന്ന് അനുമാനിക്കുന്നു തുടർന്ന് ഒന്നാം വർഷത്തേക്കുള്ള ഡിസ്കൌണ്ട് ഫാക്ടർ 0 9091 ആയി കണക്കാക്കാൻ നമ്മൾ ആ ഫോർമുല ഉപയോഗിച്ചു രണ്ടാം വർഷത്തിലെ രണ്ടാമത്തെ ഫാക്ടർ ഇത് 0 8264 ആണ് തുടർന്ന് ഈ ഡിസ്കൌണ്ട് ഫാക്ടർ ക്യാഷ് ഫ്ലോവിനൊപ്പം ഗുണിക്കുന്നു തുടർന്ന് ഡികൌണ്ട്ഡെഡ് ക്യാഷ് ഫ്ലോ ലഭിക്കും അതിനാൽ ഡികൌണ്ട്ഡെഡ് ക്യാഷ് ഫ്ലോ ഓരോ വർഷവും ക്യാഷ് ഫ്ലോവിനൊപ്പം ഗുണിച്ചാൽ ഡികൌണ്ട്ഡെഡ് ക്യാഷ് ഫ്ലോ കണ്ടെത്തേണ്ടതുണ്ട് ഡികൌണ്ട്ഡെഡ് ക്യാഷ് ഫ്ലോ കണ്ടെത്താനാകും ഒടുവിൽ നിങ്ങൾക്ക് നൽകുന്ന എല്ലാ കാലയളവുകളിലേക്കും ഡികൌണ്ട്ഡെഡ് ക്യാഷ് ഫ്ലോകൾ ചേർക്കേണ്ടതുണ്ട് അത് നിങ്ങൾക്ക് എൻപിവി തരും നിങ്ങളുടെ എല്ലാ വർഷവും ഡികൌണ്ട്ഡെഡ് ക്യാഷ് ഫ്ലോ ചേർത്തതിന് ശേഷം നമുക്ക് എൻപിവി ലഭിക്കുന്നത് 618 ഡോളറിന് തുല്യമാണ് ഈ ഉദാഹരണത്തിന് ഡിസ്കൌണ്ട് നിരക്ക് 10 ശതമാനവും 5 വർഷത്തേക്ക് എൻപിവി 618 ഡോളറുമായി വരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 3 4 പ്രോജക്ടുകൾക്കായുള്ള എൻപിവി മൂല്യങ്ങൾ കണക്കാക്കാൻ കഴിയും കൂടാതെ ഏത് പ്രോജക്റ്റാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പദ്ധതിയെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും ഇത് നിങ്ങൾക്കുള്ള ഒരു അസയിൻമെൻറ് ആണ് നെറ്റ് പ്രേസേന്റ്റ് വാല്യൂ അനാല്യ്സിസിന്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രോജക്റ്റുകൾക്കിടയിൽ തീരുമാനിക്കുന്നതിനുള്ള എൻപിവിയുടെ പ്രധാന ബുദ്ധിമുട്ട് ഡിസ്കൌണ്ട് റേറ്റ് ഉചിതമായത് തിരഞ്ഞെടുക്കുക എന്നതാണ് നിങ്ങൾ എങ്ങനെ ഡിസ്കൌണ്ട് റേറ്റ് 5 ശതമാനം 8 ശതമാനം 10 ശതമാനം അല്ലെങ്കിൽ 12 ശതമാനം എന്നിങ്ങനെ എടുക്കും അതിനാൽ ഉചിതമായ ഡിസ്കൌണ്ട് റേറ്റ് തിരഞ്ഞെടുക്കുന്നത് തീരുമാനിക്കുന്നത് ഒരു പ്രധാന ബുദ്ധിമുട്ടാണ് അതുപോലെ എൻപിവി ഉപയോഗിക്കുന്നത് മറ്റ് നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനവുമായി അല്ലെങ്കിൽ വായ്പയെടുക്കുന്ന മൂലധനച്ചെലവുമായി നേരിട്ട് താരതമ്യപ്പെടുത്താനാകില്ല മറ്റ് നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനവുമായി നേരിട്ട് താരതമ്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ മൂലധന വായ്പയെടുക്കുന്നതിനുള്ള ചെലവുകൾ ഇവയാണ് എൻപിവിയുടെ ചില പരിമിതികൾ രീതി അടുത്തതായി ഇൻടര്നൽ റേറ്റ് ഓഫ് റിട്ടേണിനെ സൂചിപ്പിക്കുന്ന ഐആർആർ എന്ന് വിളിക്കുന്ന മറ്റൊരു അളവ് കാണാം പലിശ നിരക്കുകളുമായി നേരിട്ട് താരതമ്യപ്പെടുത്താവുന്ന ഒരു ശതമാനം വരുമാനമായി ലാഭക്ഷമതാ നടപടികൾ ഐആർആർ നൽകുന്നു ഐആർആർ ഇത് ഒരു ലാഭക്ഷമതാ അളവ് നൽകുന്നു ഇത് പലിശ നിരക്കുകളുമായി നേരിട്ട് താരതമ്യപ്പെടുത്താവുന്ന ഒരു ശതമാനം വരുമാനമായി പ്രകടിപ്പിക്കുന്നു അതിനാൽ 10 ശതമാനത്തിന്റെ പിശക് കാണിക്കുന്ന ഒരു പ്രോജക്റ്റ് കരുതുക മൂലധനത്തിന് 10 ശതമാനത്തിൽ താഴെ കടം വാങ്ങാൻ കഴിയുമോ അല്ലെങ്കിൽ മൂലധനത്തെ 10 ശതമാനത്തിൽ കൂടുതൽ വരുമാനത്തിനായി മറ്റെവിടെയെങ്കിലും നിക്ഷേപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രോജക്റ്റ് വിലമതിക്കും പ്രോജക്റ്റിനായി 0 ത്തിന്റെ എൻപിവി ഉൽപാദിപ്പിക്കുന്ന ഡിസ്കൌണ്ട് റേറ്റ് ആയി ഐആർആർ കണക്കാക്കാം വ്യത്യസ്ത നിക്ഷേപ അവസരങ്ങൾ താരതമ്യം ചെയ്യാൻ ഈ ഐആർആർ ഉപയോഗിക്കാം ഇത് ഒരു സ്പ്രെഡ് ഷീറ്റ് ഉപയോഗിച്ച് കണക്കാക്കാം കൂടാതെ മൈക്രോസോഫ്റ്റ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സൽ ചില പ്രവർത്തനങ്ങൾ നൽകും മൈക്രോസോഫ്റ്റ് എക്സൽ ഐആർആർ പോലുള്ള ചില ഫംഗ്ഷനുകൾ നൽകുന്നു അത് രണ്ട് ആർഗ്യുമെൻറുകൾ ഒരു മൂല്യവും ഇനീശ്യൽ ഗസ്സും ഇനീശ്യൽ ഗസ്സ് വാല്യൂ ഇൻപുട്ടായി എടുക്കുന്നു ഒടുവിൽ അത് ഐആർആർ നൽകുന്നു അത് ഔട്ട്പുട്ടിൽ ഒരു ഐആർആർ നൽകുന്നു അതിനാൽ ഇതാണ് ഇൻടര്നൽ റേറ്റ് ഓഫ് റിടെൻ ഇത് ഒരു നല്ല അളവാണ് ഐആർആറിന്റെ പരിമിതികൾ ഇനിപ്പറയുന്നവ പോലെയാണ് ഇത് റിട്ടേണിന്റെ സമ്പൂർണ്ണ വലുപ്പത്തെ സൂചിപ്പിക്കുന്നില്ല സാധാരണയായി ഇത് റിട്ടേണിന്റെ കേവല വലുപ്പത്തെ സൂചിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ 100000 എൻപിവി ഒരു ഐആർആർ 15 ശതമാനം ഉള്ള ഒരു പ്രോജക്റ്റ് 10000 എൻപിവി ഉള്ള ഒരു പ്രോജക്റ്റിനേക്കാൾ ആകർഷകമായിരിക്കാം 18 ശതമാനം ഐആർആർ മാത്രമേ ഉള്ളൂ അത് സംഭവിക്കാം ഐആർആർക്ക് കഴിയാത്തത് സംഭവിക്കാം ഈ കാര്യം പ്രവചിക്കാൻ കഴിയാത്തതിനാൽ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ കഴിയില്ല ചില നിബന്ധനകൾക്ക് അനുസരിച്ച് പൂജ്യ൦ എൻപിവി ഉൽപാദിപ്പിക്കുന്ന ഒന്നിലധികം നിരക്കുകൾ കണ്ടെത്താൻ കഴിയും അത് സാധ്യമാണ് ഒരേ 0 എൻപിവി ഉൽപാദിപ്പിക്കുന്ന രണ്ട് നിരക്കുകൾ ഉണ്ടാകാം ഈ സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ മൂല്യം എടുക്കുകയും മറ്റ് മൂല്യങ്ങളെ അവഗണിക്കുകയും വേണം ഇപ്പോൾ അവസാനത്തെ സാങ്കേതികതയാണ് ബ്രേക്ക് ഈവൻ അനാല്യ്സിസ് ബ്രേക്ക് ഈവൻ അനാല്യ്സിസ് അല്ലെങ്കിൽ ആദ്യം നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വിളിക്കുന്ന ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കി ബ്രേക്ക് ഈവൻ അനാല്യ്സിസ് കാണാം സ്ഥാനാർത്ഥിയുടെയോ പ്രൊപ്പോസ് സിസ്റ്റത്തിന്റെയോ വിലയും നിലവിലെ വിലയും തുല്യമായിരിക്കുന്നിടത്താണ് ബ്രേക്ക് ഈവൻ നിർവചിച്ചിരിക്കുന്നത് അതിനാൽ നിലവിലുള്ള ഒരു സിസ്റ്റം പറയുന്നത് മാനുവൽ സിസ്റ്റം പ്രവർത്തിക്കുന്നു പ്രൊപ്പോസ് സിസ്റ്റം ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് അതിനാൽ വേർപെടുത്തുക എന്ന് കരുതുക തുടർന്ന് ബ്രേക്ക് പോലും നിലവിലുള്ള സിസ്റ്റവും നിലവിലുള്ള സിസ്റ്റത്തിന്റെ വിലയും പോയിന്റിന്റെ വിലയും അവ തുല്യമാണ് കാൻഡിഡേറ്റ് സിസ്റ്റത്തിന്റെ വിലയും ആനുകൂല്യങ്ങളും താരതമ്യം ചെയ്യുന്ന പേബാക്ക് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രൊപ്പോസ് സിസ്റ്റം ആണ് എന്നാൽ ബ്രേക്ക് ഈവൺ അനാല്യ്സിസ് ഇത് പ്രൊപ്പോസ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് സിസ്റ്റത്തിന്റെയും നിലവിലെ സിസ്റ്റത്തിന്റെയും വിലയുമായി താരതമ്യം ചെയ്യുന്നു ഒരു കാൻഡിഡേറ്റ് സിസ്റ്റം വികസിപ്പിച്ചെടുക്കുമ്പോൾ പ്രാരംഭ ചെലവ് സാധാരണയായി റിട്ടേണിനേക്കാൾ കൂടുതലാണ് നിലവിലെ സിസ്റ്റം ഇത് ഒരു നിക്ഷേപ കാലയളവാണെന്ന് പറയുന്നു വ്യക്തമാണ് അതിനാൽ ഒരു പ്രൊപ്പോസ് സിസ്റ്റം വികസിപ്പിച്ചെടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ പണം ചെലവഴിക്കേണ്ടതുണ്ട് പ്രാരംഭ ചെലവ് സാധാരണയായി അത് അതിനേക്കാളും നിലവിലെ സിസ്റ്റത്തിന്റെ വിലയേക്കാളും കൂടുതലായിരിക്കും അതിനാൽ ഈ കാലയളവിനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ് പീരീഡ് എന്ന് വിളിക്കുന്നു തുടർന്ന് പ്രൊപ്പോസ് സിസ്റ്റത്തിന്റെ വിലയും നിലവിലുള്ള സിസ്റ്റത്തിന്റെ വിലയും ആ പോയിന്റായി മാറുമ്പോൾ ബ്രേക്ക് എന്നും അറിയപ്പെടുന്നു ബ്രേക്ക് ഈവൻ പോയിന്റിന് ശേഷം എന്താണ് പ്രൊപ്പോസ് സിസ്റ്റം അല്ലെങ്കിൽ കാൻഡിഡേറ്റ് സിസ്റ്റത്തിന് ഇത് മികച്ചതായിരിക്കും നിലവിലുള്ളതിനേക്കാളും ലാഭം ലഭിക്കും ഈ കാലയളവിനെ റിട്ടേൺ പിരീഡ് എന്ന് വിളിക്കുന്നു ഒരു ഗ്രാഫിലൂടെ ഞാൻ ആ ഉദാഹരണം കാണിക്കാം X ആക്സിസിൽ പ്രോസസ്സിംഗ് വോളിയം y ആക്സിസിൽ പ്രോസസ്സിംഗ് കോസ്റ്റ് എടുത്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ ഈ വരിയിൽ നിങ്ങൾക്ക് കാണാനാകുന്ന ആകെ തുക എന്താണെന്ന് കാണാൻ കഴിയും ഈ ഗ്രാഫിൽ ഈ ലൈൻ നിലവിലെ സിസ്റ്റത്തെ പ്രതിനിധീകരിക്കുന്നുവെന്നും കാൻഡിഡേറ്റ് സിസ്റ്റത്തിന്റെ നിലവിലുള്ള സിസ്റ്റത്തിന്റെ ആകെത്തുകയെയാണ് ഈ ലൈൻ പ്രതിനിധീകരിക്കുന്നതെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ പ്രൊപ്പോസ് സിസ്റ്റം കൂടുതൽ ചെലവ് എടുക്കും നിലവിലുള്ള സിസ്റ്റം അവ പ്രവർത്തിപ്പിക്കുന്നതിനാൽ അത് എടുക്കും അതിനാൽ ഇതിന് കുറഞ്ഞ ചിലവ് വേണ്ടിവരും എന്നാൽ ചില ഘട്ടങ്ങളിൽ ബി പ്രൈമിന്റെ ഘട്ടത്തിൽ നിലവിലുള്ള സിസ്റ്റത്തിന്റെ വിലയും ഈ നിർദ്ദേശിത സിസ്റ്റം ക്രമമായി മാറുന്നതും കാണും അതിനാൽ ബി പ്രൈം 65000 പ്രോസസ്സിംഗ് വോളിയത്തിനടുത്തുള്ള ബ്രേക്ക് ഈവൻ പോയിന്റായി മാറുന്നു ഈ ബ്രേക്ക് ഈവൻ പോയിന്റാണെങ്കിലും ഇതിന് ശേഷമുള്ള ചെലവ് തുല്യമാണ് ഇതിനുശേഷം പ്രൊപ്പോസ് സിസ്റ്റം കുറഞ്ഞ ചെലവും നിലവിലെ സിസ്റ്റത്തിന് കൂടുതൽ ചെലവും എടുക്കുന്നതായി നിങ്ങൾ മനസ്സിലാക്കുന്നു അതിനർത്ഥം പ്രൊപ്പോസ് സിസ്റ്റം നൽകുന്നത് ആരംഭിക്കുന്നു എന്നാൽ വരുമാനം ലാഭം നൽകാൻ ആരംഭിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പ്രൊപ്പോസ് സിസ്റ്റം കൂടുതൽ ചിലവ് എടുക്കുന്നതുകൊണ്ട് ഈ പ്രദേശം ഇൻവെസ്റ്റ്മെൻറ് റേഞ്ച് അഥവാ നിക്ഷേപ ശ്രേണി എന്നറിയപ്പെടുന്നു ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റിന് ശേഷം നിലവിലെ സിസ്റ്റം കൂടുതൽ ചെലവ് എടുക്കുന്നു അതേസമയം പ്രൊപ്പോസ് സിസ്റ്റം കുറഞ്ഞ ചിലവ് എടുക്കുന്നു അത് ലാഭം നൽകാൻ ആരംഭിക്കുന്നു അതിനാൽ ഈ പ്രദേശം റിട്ടേൺ റേഞ്ച് എന്നറിയപ്പെടുന്നു ഈ പ്രദേശം ഈ പോയിന്റിനെ ഒരു നിശ്ചിത വിലയെ പ്രതിനിധീകരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണാം അതേസമയം ഈ ഭാഗം വേരിയബിൾ കോസ്റ്റിനെ പ്രതിനിധീകരിക്കുന്നു ഇതാണ് ബ്രേക്ക് ഈവൻ ചാർട്ട് അർത്ഥമാക്കുന്നത് ഇത് ഞാൻ ഇതിനകം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഷേഡുള്ള പ്രദേശം നിങ്ങൾക്ക് കാണിച്ച ഇൻവെസ്റ്റ്മെൻറ് റേഞ്ച് ഇതാണ് ഇൻവെസ്റ്റ്മെൻറ് റേഞ്ച് അല്ലെങ്കിൽ നിക്ഷേപ ശ്രേണി ഇവിടെ ഇത് റിട്ടേൺ റേഞ്ച് ബി പ്രൈം ആണ് ബ്രേക്ക് ഈവൻ പിരീഡ് അതിനാൽ ബ്രേക്ക്വെൻ പോയിന്റ് ഏത് പ്രോജക്റ്റ് നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് തീരുമാനിക്കാൻ ബ്രേക്ക് ഇവൻ പോയിന്റും വളരെ സഹായകരമാണ് ഈ പ്രഭാഷണത്തിൽ വ്യത്യസ്ത കോസ്റ്റ് ബെനിഫിറ്റ് അനാല്യ്സിസ് രീതികളെ ഉചിതമായ ഉദാഹരണങ്ങളുമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കൂടാതെ ഓരോ ടെക്നിക്കിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും വിവരിച്ചിട്ടുണ്ട് ഏത് സാങ്കേതികതയാണ് സാഹചര്യങ്ങളുമായി ഏറ്റവും അനുയോജ്യമായതെന്ന് നമ്മൾ കണ്ടു അതിനാൽ അടുത്ത ക്ലാസ്സിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാല്യ്സിസ്ന്റെ ശേഷിക്കുന്ന രണ്ട് ഘട്ടങ്ങൾ കാണാം അതാണ് ഫലങ്ങളെ വ്യാഖ്യാനിക്കുന്നതിനൊപ്പം ഉചിതമായ നടപടി സ്വീകരിക്കുന്നത് ഇതാണ് റഫറൻസുകൾ അടുത്ത ക്ലാസ്സിൽ ശേഷിക്കുന്ന രണ്ട് ഘട്ടങ്ങൾ കാണാം വളരെയധികം നന്ദി